നാം ഈ പാഠത്തിൽ സബ്സ്റ്റിട്യൂഷൻ തിയറം മറ്റൊരു രീതിയിൽ പരിഗണിക്കാൻ പോകുന്നു ഇവിടെ നാം വോൾടേജ് സോഴ്സ് ഉപയോഗിച്ചാണ് എലെമെന്റിനെ മാറ്റുന്നത് കറന്റ് സോഴ്സ് നു പകരം എലമെന്റ് E കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട് ഒന്ന് കൂടി പരിഗണിക്കാം അതിനു കുറുകെ വോൾടേജ് V ആണ് അതുപോലെ കറന്റ് എന്നത് I ഇനി ഞാൻ ചില മാറ്റങ്ങൾ ഇതിൽ ചെയ്യാൻ പോകുന്നു ആദ്യം ഞാൻ രണ്ടു വോൾടേജ് സോഴ്സുകളുടെ സീരീസ് എടുക്കുന്നു അവ വിപരീത ദിശയിലാണു കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ പോസിറ്റീവ് പൊളാരിറ്റി എന്നത് ഇടതുവശത്താണ് അതുപോലെ ഇവിടെ അത് വലതുവശത്താണ് രണ്ടും V തന്നെ ആണ് ഇത് ഇവയുടെ തുക വാല്യൂ ആയുള്ള ഒരു ഒറ്റ വോൾടേജ് സോഴ്സിന് തുല്യമാണ് പൊളാരിറ്റി നോക്കിയാൽ ഇത് v ആണ് എന്നാൽ ഇത് v അപ്പോൾ ഇത് ആകെ 0 ആകുന്നു അത് മറ്റൊന്നുമല്ല ഒരു ഷോർട് സർക്യൂട് ചെയ്തിരിക്കുന്ന വയർ ആണ് ഇത് ഒരു ഷോർട് സർക്യൂട് നിർമിക്കാനുള്ള ഒരു കുറുക്കുവഴി ആണ് എന്തെന്നാൽ ഈ സർക്യൂട്ടിൽ മറ്റു ഭാഗങ്ങൾ ബദ്ധിക്കപ്പെടാൻ പാടില്ല ഒരു വയർ നേരെ എടുക്കുന്നതിനു പകരം വിപരീത ദിശയിലുള്ള രണ്ടു വോൾടേജ് സോഴ്സുകൾ ഒരേ വാല്യൂ വച്ച് എടുക്കുന്നു ഇത് ആദ്യത്തേതിന് തുല്യം തന്നെ ആണ് അതായതു ആദ്യം എലമെന്റ് E ഉള്ള സർക്യൂട് എടുത്തതിനു തുല്യം തന്നെ അതിൽ വോൾടേജ് എന്നത് V ആണ് പിന്നെ കറന്റ് I ഇവിടെ ഇത് V ആണ് പിന്നെ ഇതും V എന്നാൽ പൊളാരിറ്റി വിപരീതമാണ് ഇനി നമുക്ക് ഈ നോഡിലെ വോൾടേജ് പരിഗണിക്കാം പിന്നെ ആ നോഡ് നമുക്ക് ഏതു റഫറൻസ് വേണമെങ്കിലും എടുക്കാം പക്ഷെ ഇവിടെ ഞാൻ ഇത് തന്നെ എടുക്കുന്നു അപ്പോൾ ഈ റഫറൻസ് വച്ച് ഈ നോഡിലെ വോൾടേജ് എന്നത് നോക്കുന്നു അത് ഞാൻ ചുമപ്പ് ആക്കി മാറ്റുന്നു അവിടെ വോൾടേജ് എന്നത് V ആണ് ഇവിടെ നിന്നും ഇങ്ങോട്ടു വോൾടേജ് റൈസ് ആണ് ഉള്ളത് എന്നാൽ ഇവിടെ വോൾടേജ് താഴുകയാണ് അപ്പോൾ റഫറൻസ് വച്ച് നോക്കിയാൽ ഇവിടെ ആകെ വോൾടേജ് എന്നത് V V ആണ് അത് 0 ആണ് അപ്പോൾ ഈ പിങ്ക് നിറത്തിൽ കാണിച്ചിരിക്കുന്ന നോഡുകൾ 0 വോൾട് ആണ് അപ്പോൾ റഫറൻസ് പോലെ തന്നെ ഇതും 0 വോൾട് ആണ് അത് തന്നെ ആണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ആദ്യത്തെ സർക്യൂട് തന്നെ ആണ് എനിക്ക് ഇത് രണ്ടും സർക്യൂട്ടിൽ മാറ്റം വരുത്താതെ തന്നെ ചേർക്കാനാകും ഞാൻ പുതിയ രീതിയിൽ ഇത് മാറ്റി വരക്കുന്നു ഈ സർക്യൂട്ടിന്റെ ബാക്കി അങ്ങനെ തന്നെ ഞാൻ ആദ്യ വോൾടേജ് സോഴ്സ് എന്നത് ഇതുപോലെ വരയ്ക്കുന്നു എന്തെന്നാൽ ഞാൻ ഇത് ഷോർട് ആക്കി ഞാൻ ഇവിടെ ടെർമിനൽ 1 പിന്നെ 2 എന്നിങ്ങനെ അടയാളപ്പെടുത്തുന്നു ഇവിടെ നോക്കിയാലും എനിക്ക് V വാല്യൂ ഉള്ള വോൾടേജ് സോഴ്സ് കാണാം ഇപ്പോൾ മനസിലാക്കാം ഇതിലൂടെ ഉള്ള കറന്റ് എന്നത് 0 ആണ് എന്തെന്നാൽ ആദ്യമേ എനിക്കറിയാം ആദ്യം ഇതിലെ ഒരു കറന്റ് ഉണ്ടായിരുന്നു അതോടൊപ്പം ഈ ദിശയിൽ ഒരു വോൾടേജ് സോഴ്സ് എന്നാൽ ഇപ്പോൾ അതല്ല നാം കാണുന്നത് എന്നാൽ അത് തന്നെ ആണ് ആദ്യം അതിലെ ഒരു കറന്റ് ഉണ്ടായിരുന്നു എന്നാൽ മാറ്റി സർക്യൂട് വരച്ചപ്പോൾ അതായതു ഈ വോൾടേജ് സോഴ്സ് നെഗറ്റീവ് ടെർമിനൽ താഴെ ആക്കി വരച്ചപ്പോൾ എനിക്ക് അതെ കറന്റ് ഇവിടെയും ഉണ്ട് ഇത് നിങ്ങൾ പൂർത്തിയാക്കിയാൽ കറന്റ് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്കു കാണാം ഈ പ്രത്യേക വയറിൽ കറന്റ് 0 ആയിരിക്കും എന്തെന്നാൽ ഇത് ഇങ്ങോട്ടാണ് പോകുന്നത് പിന്നെ മറ്റൊന്നും വരുന്നുമില്ല അപ്പോൾ ഒറ്റപെടുത്തിയിട്ടുള്ള ഈ രണ്ടു സർക്യൂട് ഉണ്ട് അവ ഒരു വയർ ഉപയോഗിച്ച് മാത്രമാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കിർച്ചോഫ്സ് കറന്റ് ലോ വച്ച് അത് 0 ആണ് നമുക്ക് ഇത് മറ്റൊരു രീതിക്കു നോക്കാം കിർച്ചോഫ്സ് കറന്റ് ലോ നമുക്ക് ഈ 0മൊത്തം സർക്യൂട്ടിൽ പ്രയോഗിക്കാം ഇവിടെ വേറൊരു വയർ ഇല്ലാത്തതിനാൽ കറന്റ് അകെ 0 ആണ് അപ്പോൾ അകെ ഉള്ള ഈ വയറിലും കറന്റ് 0 ആണ് അതിനാൽ ഈ വയർ എനിക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഇത് മാത്രമാണ് ബാക്കി ഉള്ളത് ഓർക്കുക ആദ്യം നാം തുടങ്ങിയത് E എലമെന്റ് മാത്രമുള്ള സർക്യൂട്ടിൽ നിന്നാണ് ഇത് അത് തന്നെ ആണ് ഇത് മാറ്റിവരച്ച ഒരു സർക്യൂട് ആണ് ഇത് സബ്സ്റ്റിട്യൂഷൻ തിയറം മറ്റൊരു രീതിയിൽ പറയുന്നതാണ് എനിക്ക് എലമെന്റ് E ഉള്ള സർക്യൂട് ഉണ്ടെങ്കിൽ പിന്നെ അതിലൂടെ ഉള്ള വോൾടേജ് എന്നത് V ആണെങ്കിൽ ആ എലെമെന്റിനെ V വാല്യൂ ഉള്ള വോൾടേജ് സോഴ്സ് ഉപയോഗിച്ച് വച്ച് മാറാം ഈ മാറ്റം വരുത്തിയാൽ ഒരു ബ്രാഞ്ച് വോൾടേജ് അല്ലെങ്കിൽ കറന്റ് മാറുന്നില്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സർക്യൂട് മാറ്റമില്ലാതായി എലമെന്റ് E യുടെ കുറുകെ വോൾടേജ് V ആണെങ്കിൽ ആ എലമെന്റ് എന്നത് ഒരു വോൾടേജ് സോഴ്സ് V ആക്കി നമുക്ക് മാറ്റാം ഇത് മാറ്റങ്ങൾ ഒന്നും വരുത്തുന്നില്ല ഇത് സബ്സ്റ്റിട്യൂഷൻ തിയറം മറ്റൊരു രീതിയിൽ പറയുന്നതാണ് ഇവിടെ കറന്റ് സോഴ്സിന് പകരം വോൾടേജ് സോഴ്സ് ആണ് ഞാൻ പെട്ടെന്ന് മറ്റൊരു കാര്യം കാണിക്കാം ഞാൻ അതെ സർക്യൂട് തന്നെ വീണ്ടും എടുക്കുന്നു ഞാൻ ആദ്യം എടുത്ത അതെ 1 കിലോ Ω 4 കിലോ Ω പിന്നെ 5 വോൾട് എന്നിവ വേണ്ടതും എടുക്കുന്നു നമുക്കറിയാം ഇവിടെ കറന്റ് എന്നത് 1 മില്ലി ആംപിയർ ആണ് ഇനി ഞാൻ ഇതിനെ വോൾടേജ് സോഴ്സ് ഉപയോഗിച്ച് വച്ച് മാറുന്നു ഇനി ഈ 4 കിലോ Ω റെസിസ്റ്ററിനു കുറുകെ 4 വോൾട് ആണല്ലോ ഇതേ സർക്യൂട് ഞാൻ എടുക്കുന്നു എന്നിട്ടു ബാക്കി അങ്ങനെ തന്നെ നിലനിർത്തുന്നു എന്നാൽ ഇവിടെ ഈ 4 കിലോ Ω നു പകരം 4 വോൾട് സോഴ്സ് കണക്ട് ചെയ്യുന്നു ഇനി ഈ സർക്യൂട്ടിൽ കറന്റിനോ വോൾട്ടേജിനോ മാറ്റമെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം വ്യക്തമായും ഈ റെസിസ്റ്ററിനു കുറുകെ 1 വോൾട് ആണ് പിന്നെ ഈ സോഴ്സ് എന്നത് 5 വോൾട് കറന്റ് അപ്പോൾ 1 മില്ലി ആംപിയർ തന്നെ ആണ് ആദ്യത്തേത് പോലെ തന്നെ ഈ 1 മില്ലി ആംപിയർ കറന്റ് എന്നത് ക്ലോക്ക് വൈസ് ആയാണ് ഒഴുകുന്നത് അപ്പോൾ ഇതിനു കുറുകെ വോൾടേജ് എന്നത് തീർച്ചയായും 4 വോൾട് ആണ് ഇവിടെ 5 വോൾട് ഓരോ എലമെന്റ് ആയി താരതമ്യം ചെയ്യുമ്പോഴും ഒരു ബ്രാഞ്ച് വോൾട്ടജോ അതോ കറന്റോ മാറിയിട്ടില്ല ആദ്യത്തെ കറന്റ് സോഴ്സ് പോലെ തന്നെ ഇതും വളരെ ഉപയോഗപ്രദമായ ഒരു തിയറം ആണ് മറ്റു തിയറങ്ങൾ തെളിയിക്കാൻ ഇത് ഉപകാരപ്പെടും ചില കേസിൽ നമുക്ക് വോൾടേജ് സോഴ്സ് എന്നത് ഒരു റെസിസ്റ്റർ ആക്കി മാറ്റാൻ സാധിക്കും